ഫാരഡെയുടെ നിയമം ഇതുവരെ ഈ കോഴ്സിൽ നമ്മൾ സ്ഥിരമായ സാഹചര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ നമ്മൾ നിശ്ചിത ചാർജുകളും ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡും v r വെക്റ്റർ പൊട്ടൻഷ്യലുകളും മറ്റും കണ്ടു കൂടാതെ നമ്മൾ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്സിലെ സ്ഥിരമായ വൈദ്യുതധാരകൾ കണ്ടു ഇവിടെ കറൻറ് സമയത്തെ ആശ്രയിക്കുന്നില്ല j r എന്ന കറൻറ് സാന്ദ്രതയും അതിനോട് അനുബന്ധിച്ചുള്ള കാന്തികക്ഷേത്രവും വെക്റ്റർ പൊട്ടൻഷ്യലുകളും നമ്മൾ കൈകാര്യം ചെയ്തു ഇപ്പോൾ നമ്മൾ ചലനാത്മകതയിലേക്ക് പോകാൻ പോകുന്നു ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്നാൽ നമ്മൾ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി ഇതിന്റെ ഫലം എന്താണെന്ന് ഞാൻ കാണാൻ പോവുകയാണ് അതിനാൽ ഇതിൽ ആദ്യം വരുന്നത് ഫാരഡെയുടെ നിയമമാണ് ഫാരഡെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ആദ്യം ചിന്തിക്കുകയും പിന്നീട് നിരീക്ഷിക്കുകയും ചെയ്തു എനിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക അതിലൂടെ കടന്നുപോകുന്ന കാന്തികക്ഷേത്രത്തിന്റെ ഫ്ലക്സ് ഞാൻ മാറ്റുന്നു അതിനാൽ അതിലൂടെ കടന്നുപോകുന്ന ഫ്ലക്സിന്റെ dd t മാറ്റുന്നു തുടർന്ന് ഇത് ഒരു e m f നെ ഉണ്ടാക്കുന്നു അതിനാൽ e m f എന്നത് ഫ്ളക്സിൻറെ ddt ക്ക് തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം അതിന്റെ അർത്ഥം എന്തെന്നാൽ എനിക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഈ e m f കാരണം വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങും ഇവിടെ കറൻറ് പ്രവഹിക്കാൻ തുടങ്ങുന്നത് അതിലെ ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നത് കൊണ്ടാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് ലെൻസിന്റെ നിയമം ആണ് അത് പറയുന്നത് മാറ്റത്തിനു കാരണമാകുന്ന ദിശയെ എതിർക്കുന്ന രീതിയിൽ ആണെന്നാണ് അത് നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഗണിതപരമായി നൽകാവുന്നതാണ് ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഒരു സർക്യൂട്ട് എടുത്ത് സർക്യൂട്ടിന്റെ വിസ്തീർണ്ണം മാറ്റുകയോ അതിലൂടെയുള്ള കാന്തികമണ്ഡലം മാറ്റുകയോ ചെയ്താൽ അവിടെ ഒരു e m f സൃഷ്ടിക്കപ്പെടും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായി ഈ പ്രകടനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഐഐടി കാൺപൂരിലെ പ്രൊഫസർ എച്ച് സി വർമയെ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രകടനത്തിലൂടെ ഞാൻ ഇത് കാണിച്ചുതരാം ആദ്യ പ്രകടനത്തിൽ എനിക്ക് ഈ ട്യൂബ് ഉണ്ട് അതിൽ ധാരാളം വയർ ചുറ്റിയിട്ടുണ്ട് ഞാൻ ഈ കാന്തം അതിനകത്ത് വെച്ചു ഇപ്പോൾ ഞാൻ കാന്തം കുലുക്കുകയാണെങ്കിൽ അത് വയറിനടുത്ത് വരുമ്പോൾ ഫ്ലക്സ് മാറുന്നു കാരണം കാന്തം അടുത്തുവരുന്തോറും ഫീൽഡ് ശക്തമാവുകയും അത് പോകുന്തോറും ഫീൽഡ് ദുർബലമാവുകയും ചെയ്യും വീണ്ടും ഫ്ലക്സ് മാറാൻ പോകുന്നു അത് ഒരു e m f ഉൽപാദിപ്പിക്കുന്നു ഇവിടെ നിർമ്മിക്കപ്പെടുന്ന e m f കാണിക്കാനായി ഇവിടെ വയർ ഒരു l e d യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ l e d തിളങ്ങുകയും അത് നമുക്ക് കാണുകയും ചെയ്യാം ചുവന്ന വെളിച്ചം വരുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ കാന്തം അതിന്റെ കാന്തികക്ഷേത്രത്തെ മാറ്റിക്കൊണ്ട് നീങ്ങുകയും കാന്തികക്ഷേത്രത്തിലെ മാറ്റം ഫ്ലക്സ് മാറ്റുകയും അത് ഒരു e m f സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ആദ്യമായി കാണുന്നത് ഫാരഡെ ചെയ്തത് പോലെ ഞാൻ ഒരു കോയിലിലൂടെ ഒരു കാന്തം എറിയുകയാണെങ്കിൽ അതിൽ ഒരു e m f ഉണ്ടാകുന്നു രണ്ടാമത്തെ കാര്യം e m f ന്റെ ദിശ വിപരീതമാണ് അത് മാറ്റത്തെ എതിർക്കുന്നു വീണ്ടും പ്രൊഫസർ എച്ച് സി വർമയുടെ ലാബിൽ വികസിപ്പിച്ച ഒരു പ്രകടനം ഇവിടെ ഒരു കോയിൽ ഉണ്ട് അതിൽ നമ്മൾ ഈ ഇരുമ്പ് സ്പൈക്കുകൾ സ്ഥാപിച്ചു ഇത് കാന്തികക്ഷേത്രത്തെ വളരെ ശക്തമാക്കുന്നു നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറന്റ് ഒഴുകാൻ തുടങ്ങും അപ്പോൾ റിംഗ് അകന്നുപോകാൻ ശ്രമിക്കും കാരണം റിംഗിൽ ഉൽപാദിപ്പിക്കുന്ന കറന്റ് അല്ലെങ്കിൽ e m f അത് മാറ്റത്തെ എതിർക്കാൻ പോകുന്നു അതിനാൽ ഞാൻ ഇത് ഓണാക്കും റിംഗ് പുറത്തേക്ക് ചാടുന്നത് നിങ്ങൾക്ക് കാണാം അതാണ് ലെൻസ് നിയമം ഇത് എങ്ങനെ ഗണിതപരമായി ചെയ്യാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് dmdt ക്ക് തുല്യമായ e m f ഉണ്ട് ലെൻസിന്റെ നിയമം കാണിക്കാൻ ഞാൻ ഒരു മൈനസ് അടയാളം മുന്നിൽ വെച്ചു ഈ മൈനസ് ചിഹ്നം എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അത് നമുക്ക് ചർച്ച ചെയ്യാം EMF dϕdt അതിനാൽ e m f മൈനസ് d ഫൈ ഓവർ d t ക്ക് തുല്യമാണ് ഇത് മൈനസ് d d t ഇന്റഗ്രൽ B ഡോട്ട് d s ന് തുല്യമാണ് B ഈ മേഖലയിലൂടെ കടന്നുപോകുന്നു d s എന്നത് ഈ മേഖലയിലെ വിസ്തീർണത്തിൻറെ ഘടകമാണ് അതിനാൽ ഇന്റഗ്രൽ B ഡോട്ട് d s എനിക്ക് ഫ്ലക്സ് നൽകുന്നു ഇത് മാറാൻ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ B ക്ക് സമയത്തിനനുസരിച്ച് മാറാം അതിനാൽ മൈനസ് ചിഹ്നമായ dot d s ഉപയോഗിച്ച് ഞാൻ ddt ചെയ്യുകയും വിസ്തീർണ്ണം നിശ്ചലമായി തുടരുകയും ചെയ്യും അല്ലെങ്കിൽ എനിക്ക് സമയബന്ധിതമായി B സ്ഥിരമായിരിക്കാം എന്നാൽ ഈ വിസ്തീർണ്ണം മാറുന്നു അതായത് വിസ്തീർണ്ണം അകത്തേക്കും പുറത്തേക്കും പോകുന്നു അതിനാൽ ഫ്ലക്സ് മാറുന്നു ഇത്തരം e m f ന് കാരണം അതിരുകളുടെ ചലനമാണ് ഇതിനെ ചിലപ്പോൾ മോഷണൽ e m f എന്ന് വിളിക്കപ്പെടുന്നു ഇത് കാന്തിക മണ്ഡലത്തിലെ മാറ്റമാണ്

dS അതിനാൽ ആദ്യം നിങ്ങൾക്ക് വളരെ പരിചിതമായ മോഷണൽ e m f ന്റെ ഒരു ഉദാഹരണം നോക്കാം ഞാൻ ഒരു വയർ എടുത്ത് ഈ ലോഹ കമ്പിയിൽ ഒരു വടി വെച്ചാൽ അതിൽ ഫീൽഡ് പുറത്തേക്ക് വരികയും ഞാൻ ഇത് പ്രവേഗം v ഉപയോഗിച്ച് വലിക്കുകയും ചെയ്യുന്നു അപ്പോൾ പ്രദേശം മാറുകയും പ്രദേശത്തെ ഈ മാറ്റം എനിക്ക് b v l ന് തുല്യമായ ഒരു emf നൽകുന്നു l ഈ വടിയുടെ നീളവും v l നിങ്ങൾക്ക് പ്രദേശത്തിന്റെ മാറ്റത്തിന്റെ നിരക്കും നൽകുന്നു വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അത് മാറുന്നതിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും അതിനാൽ കറന്റ് വടിയെ എതിർക്കുന്നതും ഇത് പുറത്തെടുക്കുന്നതിനെ എതിർക്കുന്നതും ആയിരിക്കണം അതിനാൽ I v പുറത്തേക്ക് വരുന്നു I ക്രോസ് B എന്നത് എനിക്ക് ഇതുപോലുള്ള ഒരു മുഴുവൻ ശക്തി നൽകും അതിനാൽ ഞാൻ വടിയുടെ താഴേക്കുള്ള ദിശയിലേക്ക് ഇറങ്ങണം അതിനാൽ ലൂപ്പിൽ ഇത് ഇങ്ങനെ പോകണം ഇതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ ഒരു ബാറ്ററി എടുത്ത് ഒരു സ്വിച്ച് ഇട്ട് ഒരു കോയിലിലൂടെ ഇടുന്നുവെന്ന് കരുതുക അതിനാൽ കോയിലിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ അതിലൂടെ ഒരു ഫ്ലക്സ് ഉണ്ടാകുകയും വൈദ്യുതധാരയിലെ ഏത് മാറ്റവും ഈ ഫ്ലക്സ് മാറ്റുകയും ചെയ്യും ഇപ്പോൾ e m f മൈനസ് ചിഹ്നത്താൽ d ഫൈ by d t യ്ക്ക് ആനുപാതികമോ തുല്യമോ ആകാൻ പോകുന്നു ഇപ്പോൾ ഞാൻ ഈ മൈനസ് ചിഹ്നം ഗണിതപരമായി അർത്ഥവത്താക്കാം ഫൈ അത്തരം കോയിലിൽ കറൻറിനോട് ആനുപാതികമാണ് ഇത് തുല്യം ആക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക സ്ഥിരാങ്കത്തെ സാധാരണയായി സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ ഞാൻ ഇവിടെ ഒരു L ഇടാൻ പോകുന്നു അതിനാൽ ഇത് മൈനസ് L d I by dt ആണ് ഇപ്പോൾ ഈ മൈനസ് ചിഹ്നത്തിന്റെ പ്രാധാന്യം നമുക്ക് കാണാം അതിനാൽ ഞാൻ സ്വിച്ച് ഇട്ടയുടനെ എനിക്ക് ലഭിക്കാൻ പോകുന്ന സമവാക്യം emf ആണ്ഈ emf v യ്ക്ക് തുല്യമാണ് സിസ്റ്റത്തിൽ ജനറേറ്റുചെയ്യുന്ന മറ്റ് emf ആണ് മൈനസ് L d I by dt എന്നാൽ ഇത് r I യ്ക്ക് തുല്യമായിരിക്കണം ഇവിടെ r സിസ്റ്റത്തിന്റെ പ്രതിരോധം ആയിരിക്കും V പൂജ്യമായിരുന്നുവെന്നും പ്രാരംഭ വൈദ്യുത പ്രവാഹം I ആ സാഹചര്യത്തിൽ I 0 ന് തുല്യമാണെന്നും കരുതുക EMF dϕdt LdIdt ϕ∝I or ϕLI V LdIdtRI ഈ സമവാക്യം പൂജ്യം മൈനസ് L d I by d t സമം R I ആയിരിക്കും അല്ലെങ്കിൽ d Id t r ഓവർ L I പൂജ്യത്തിന് തുല്യമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സർക്യൂട്ടിൽ കറന്റ് ഒഴുകുകയും ഞാൻ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്താൽ ഇപ്പോൾ ഈ ഉത്തരം I എന്നത് I 0 e റെയ്സ് ടു മൈനസ് r ഓവർ L t ക്ക് തുല്യമായിരിക്കും മറിച്ച് മുകളിലെ സമവാക്യത്തിൽ മൈനസ് ചിഹ്നത്തിന് പകരം പ്ലസ് ആയിരുന്നെങ്കിൽ എനിക്ക് L d I dt സമം R I ലഭിക്കും ഇത് എനിക്ക് ഒരു I സമം I 0 e റെയ്സ് ടു R ഓവർ L t എന്ന് ഉത്തരം നൽകും ഈ അവസ്ഥയിൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ അതിനുശേഷം കറന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ ഇതുവരെ നിരീക്ഷിച്ചതിനെ ലംഘിക്കുന്നതാണ് ഇത് ഊർജ്ജ സംരക്ഷണത്തിന്റെ ലംഘനമാണ് ഈ സാഹചര്യത്തിൽ ഇത് സമയത്തിനനുസരിച്ച് കുറയുകയും ഒടുവിൽ പൂജ്യത്തിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ ആ മൈനസ് ചിഹ്നത്തിൻറെ പ്രാധാന്യം നിങ്ങൾക്ക് കാണാനാകും അതാണ് ലെൻസിന്റെ നിയമത്തിന്റെ പ്രസ്താവന 0 LdIdtRI dIdtRLI0 or II0e RLt ഈ മൈനസ് ചിഹ്നത്തിന്റെ പ്രാധാന്യം ഞാൻ കാണിക്കുന്ന രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ ഇതിനകം പരിഹരിച്ചതാണ് എന്റെ കൈവശമുള്ള ഈ ലോഹ സർക്യൂട്ടിൽ ഈ വടി വലതുവശത്തേക്ക് വലിച്ചിടുന്നു ഇത് അതിൻറെ വേഗതയാണ് നമ്മൾ ഇതിനകം ആ ഫീൽഡ് എടുത്തതുപോലെ ഈ സ്ക്രീനിൽ നിന്ന് പുറത്തുവരുന്നു ആ സാഹചര്യത്തിൽ കറന്റ് ഘടികാരദിശയിൽ പോകുന്നതായി നമ്മൾ കണ്ടു അതാണ് ഇവിടെ എതിർക്കുന്നത് അതിനാൽ അതാണ് നമ്മൾ ഭൌതികമായി ഇവിടെ കണ്ടത് ഇതിനെ നമുക്ക് ഗണിതപരമായി നോക്കാം അതിനാൽ ഈ അവസ്ഥയിൽ എനിക്ക് e m f നെ മൈനസ് d by dt B A എന്ന് എഴുതാം ഇത് ഒരു യൂണിഫോം ഫീൽഡാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇതിനെ r I എന്ന് എഴുതാനാകും ഈ മൈനസ് ചിഹ്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ അല്പം വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ പോകുന്നു ഞാൻ R I ഇന്റഗ്രേഷൻ u ഡോട്ട് d l ഓവർ ആകെയുള്ള നീളം ആയി എഴുതാൻ പോകുന്നു u എന്നാൽ കറന്റ്ൻറെ ദിശയിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് അത് ചിത്രത്തിൽ ഇതു പോലെ ആകുന്നു അവിടെ d l എന്നത് ദിശയിലെ നീളത്തിൻറെ ഘടകമാണ് ഇപ്പോൾ A യുടെ ദിശയും l ൻറെ ദിശയും വലതു കൈ കൺവെൻഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഞാൻ എന്റെ വിരലുകളെ l നു ചുറ്റും ഘടികാരദിശയിലോ എതിർ ഘടികാരദിശയിലോ എടുക്കുകയാണെങ്കിൽ തള്ളവിരൽ എനിക്ക് A യുടെ ദിശ നൽകുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ b സ്ഥിരമാണ് a മാറുകയും ആണ് അതിനാൽ ഞാൻ ഇത് എഴുതാൻ പോകുന്നത് മൈനസ് B ഡോട്ട് d A by d t എന്നത് R I ഓവർ L വളവിലുടനീളം ഇന്റഗ്രൽ u ഡോട്ട് d l ചെയ്തതിനുതുല്യമാണ് ഇവിടെ L എന്നത് മുൻപു കണ്ട സെൽഫ് ഇൻഡക്റ്റൻസുമായി ആശയക്കുഴപ്പത്തിലാക്കരുത് ഞാൻ പ്രദേശം A യും പുറത്തേക്കുള്ള ദിശയിൽ ആണെന്ന് എടുക്കുന്നു ഞാൻ A പുറത്തേക്കുള്ള ദിശയിൽ ആണെന്ന് എടുക്കുകയാണെങ്കിൽ u ഉം l ഉം ഇതുപോലെ എതിർ ഘടികാരദിശയിൽ ആയിരിക്കും v പുറത്തേക്ക് എടുക്കുന്നതിനാൽ A വർദ്ധിക്കുന്നു അപ്പോൾ d A by dt പോസിറ്റീവും മൈനസ് d A by dt സ്ക്രീനിലേക്കും ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ഈ മുഴുവൻ പദവും ഇവിടെ ഈ മൈനസ് ചിഹ്നം കാരണം മൈനസ് b da by dt നെഗറ്റീവ് ആയിരിക്കും കറൻറ് ദിശ എതിർ ഘടികാരദിശയിൽ ആണെങ്കിൽ വലതുവശത്ത് നോക്കുക I എതിർ ഘടികാരദിശയിലാണെങ്കിൽ നിങ്ങൾ d l ൻറെ അതേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ വലതുവശം പോസിറ്റീവ് ആയിരിക്കും ഇടത് വശത്തിന്റെയും വലതുവശത്തിന്റെയും ചേർച്ചയില്ലായ്മ നിങ്ങൾക്ക് കാണാനാകും മറുവശത്ത് u ഘടികാരദിശയിലാണെങ്കിൽ കറന്റ് ഘടികാരദിശയിലാണെങ്കിൽ u ഉം d l ഉം എതിർദിശയിലാണ്അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ചിഹ്നം ലഭിക്കും അതിനാൽ ഈ ചിഹ്നത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് കാണാനാകും ഇത് യഥാർത്ഥത്തിൽ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം കറന്റ് ഘടികാരദിശയിലോ എതിർ ഘടികാരദിശയിലോ പോയിട്ടുണ്ടെങ്കിൽ വടി വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കും കാരണം അത് പുറത്തേക്ക് തള്ളപ്പെടും മറുവശത്ത് അത് ഘടികാരദിശയിൽ പോകുമ്പോൾ അത് നിർത്തുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഫാരഡെയുടെ നിയമത്തിലെ ഫ്ലക്സിലെ മാറ്റം e m f നൽകുന്നു എന്നും അത് മൈനസ് dΦ dt ആകുമെന്നും ആണ് ലെൻസ് നിയമത്തെ അതിന്റെ ഗണിതശാസ്ത്രപരമായ പ്രഭാവം കാണിക്കാൻ ഈ മൈനസ് ചിഹ്നം അവിടെ നൽകിയിരിക്കുന്നു അത് കറൻറ്ൻറെ ഒഴുക്കിനെ അത് ഉണ്ടാക്കുന്ന മാറ്റത്തെ എതിർക്കുന്ന വിധത്തിൽ ആക്കുന്നു എന്നതാണ് അടുത്ത പ്രഭാഷണത്തിൽ ഈ ഫാരഡെയുടെ നിയമം മുഴുവൻ ഫീൽഡുകൾക്ക് അനുസൃതമായി നമ്മൾ മാറ്റും